അതിനാൽ ഈ ഫിനിറ്റ് എലമെന്റ് രീതിയുടെ ചില വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഞാൻ വളരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഇതിലൂടെ പ്രവർത്തിച്ച ആശയപരമായ രീതി യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനകം ചർച്ച ചെയ്തതിന് സമാനമാണ് അങ്ങനെ വിളിക്കപ്പെടുന്ന നിമിഷങ്ങളുടെ രീതി അതിനാൽ നമുക്ക് അത് പുനർവിചിന്തനം ചെയ്യാം അതിനാൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് നിമിഷങ്ങളുടെ രീതി ഞങ്ങൾ പഠിച്ചത് ഞങ്ങളുടെ ഓപ്പറേറ്റർ സമവാക്യമാണെന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അതിനാൽ ഇവിടെ റീക്യാപ്പ് എന്താണ് L എന്നത് ഒരു ഓപ്പറേറ്റർ ആയിരുന്നു ഇതുവരെ ഞങ്ങൾ കണ്ട ഓപ്പറേറ്റർമാർ ഇന്റഗ്രൽ ഇക്വേഷൻ ഓപ്പറേറ്റർ ആയിരുന്നു അവർക്ക് അതിനുള്ളിൽ ഒരു അവിഭാജ്യ ചിഹ്നം ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടത് അജ്ഞാതമായിരുന്നു ചില അതിർത്തി വ്യവസ്ഥകൾക്കൊപ്പം അജ്ഞാതമായ നിർബന്ധിത പ്രവർത്തനവും ശരിയാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ എല്ലാ അതിർത്തി വ്യവസ്ഥകളും എല്ലായ്പ്പോഴും കൃത്യമായി വ്യക്തമാക്കേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾ ഇവിടെ സമവാക്യം രൂപപ്പെടുത്തുന്ന അതേ തരത്തിലുള്ള ഒരു ആരംഭ പോയിന്റായി അനുമാനിക്കും ഞങ്ങൾ നിമിഷങ്ങളുടെ രീതിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്തത് ഘട്ടം 1 എന്തായിരുന്നു വിദ്യാർത്ഥി അടിസ്ഥാന പ്രവർത്തനം അടിസ്ഥാന പ്രവർത്തനങ്ങൾ ശരിയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ഫോമിൽ ഒരു അടിസ്ഥാന പ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടം ശരിയായി എഴുതാമെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ എന്താണ് പറഞ്ഞത് അതിനാൽ ഞാൻ ഇത് ഉള്ളിൽ മാറ്റിസ്ഥാപിച്ചു അതിനാൽ എനിക്ക് ലഭിച്ചു ഇത് വലത് അതിനാൽ ഞങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും പക്ഷേ അടിസ്ഥാനപരമായി ഘട്ടം 2 എന്തായിരുന്നു അടിസ്ഥാനം ഒരു ആദ്യപടിയാണ് വിദ്യാർത്ഥി ടെസ്റ്റിംഗ് അല്ലേ ശരിയായി പരിശോധിക്കുന്നു അതിനാൽ ഇവ അടിസ്ഥാന ഫംഗ്ഷനുകളായിരുന്നു അടുത്ത ഘട്ടം ടെസ്റ്റിംഗ് ഫംഗ്ഷനുകളായിരുന്നു അപ്പോൾ ഞാൻ എന്താണ് ചെയ്തത് ഞാൻ ഒരു ആന്തരിക ഉൽപ്പന്നം ശരിയായി എടുത്തു അതിനാൽ ആന്തരിക ഉൽപ്പന്നം എടുക്കുക അതുകൊണ്ട് എന്തു സംഭവിച്ചു അതിനാൽ ഈ സംഗ്രഹം വലതുവശത്ത് നിന്നു അതിനാൽ ഇത് സ്ഥിരമായ ഒരു സംഖ്യയാണ് ഇവിടെയാണ് ടെസ്റ്റിംഗ് ഫംഗ്ഷൻ വന്നത് അതായത് ഇടത് വശവും വലത് വശവും വലത്തിന്റെ ആന്തരിക ഉൽപ്പന്നമായി മാറി അതിനാൽ ഈ ഭാഗം നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമാണ് അപ്പോൾ ഞങ്ങൾ പരിഗണിച്ച ഏറ്റവും ലളിതമായ ടെസ്റ്റിംഗ് ഫംഗ്ഷൻ ഏതാണ് വിദ്യാർത്ഥി ഡെൽറ്റ ഡെൽറ്റ വലത് അതിനാൽ നിങ്ങൾ ഏറ്റവും ലളിതമായ ടെസ്റ്റിംഗ് ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനാൽ അങ്ങനെയാണ് ഞാൻ അത് ശരിയായി എഴുതിയത് അതിനാൽ ഈ ആന്തരിക ഉൽപ്പന്നവും ഈ എല്ലാ കാര്യങ്ങളും എന്തിലേക്കാണ് തിളപ്പിക്കുന്നത് ഈ ആന്തരിക ഉൽപ്പന്നം തകരുന്നു എനിക്ക് അവശേഷിക്കുന്ന അവിഭാജ്യ തകർച്ച അതിനാൽ ഉദാഹരണം ഉദാഹരണത്തിന് ശരി അതിനാൽ ഈ ഓപ്പറേറ്റർ സമവാക്യം ശരിയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഈ രീതിയിൽ എഴുതിയതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഞാൻ ഇതിനെ ചില ടെസ്റ്റിംഗ് ഫംഗ്ഷൻ കൊണ്ട് ഗുണിക്കുമ്പോൾ അങ്ങനെയാണ് ടെസ്റ്റിംഗിന്റെ അർത്ഥം വലത് ഇടതുവശത്ത് ശരി അവിഭാജ്യ അവകാശത്തിനുള്ളിൽ നിലനിൽക്കുന്ന മൂല്യങ്ങൾ മാത്രമാണ് അർത്ഥമാക്കുന്നത് എന്നതിൽ ഇത് വിലയിരുത്തപ്പെടും അതിനാൽ ഇത് ഇവിടെ നിങ്ങളുടെ ടെസ്റ്റിംഗ് ഫംഗ്ഷനായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയാണ് ഇതിന് ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ ശരിയായ പോയിന്റ് മാച്ചിംഗ് നൽകിയ പേര് ഏത് പോയിന്റുമായി പൊരുത്തപ്പെടുന്നു എന്നതിന്റെ പോയിന്റ് മാച്ച് ആയി നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ നിർത്താം ഇത് പരിമിതമായ വ്യത്യാസ രീതികൾ എന്ന് വിളിക്കപ്പെടുന്ന ഏകദേശ രീതികളുടെ ഒരു ജനപ്രിയ സെറ്റ് സൃഷ്ടിക്കുന്നു അതിനാൽ ഇതും പരിമിതമായ ശരിയിലേക്ക് നയിക്കുന്നു അതിനാൽ പരിമിതമായ വ്യത്യാസ രീതികൾ കൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഈ ഉദാഹരണം ഇവിടെ നോക്കാം അതിനാൽ അനലിറ്റിക്കൽ ഡെറിവേറ്റീവുകളൊന്നും കണക്കാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഒരു ഘട്ടത്തിൽ വിലയിരുത്തിയ ഫൈയുടെ രണ്ടാമത്തെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാമെന്നും ഇവിടെ പറയാം എന്നാൽ ഫംഗ്ഷൻ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിമിതമായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇത് എഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഞാൻ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് ശരിയാണ് അതിനാൽ ഇതുപോലെ നിങ്ങൾക്ക് വിവിധ മൂല്യങ്ങൾക്കായി ആവർത്തിക്കാം കൂടാതെ നിങ്ങൾക്ക് ഒരു കൂട്ടം സമവാക്യങ്ങൾ ലഭിക്കുന്ന വലതുവശത്ത് ഓരോന്നിനും ഒരു കൂട്ടം സമവാക്യങ്ങൾ ലഭിക്കും അതിനാൽ അത് പരിമിതമായ വ്യത്യാസ രീതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ കോഴ്സിന്റെ മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഇവ വിശദമായി പരിശോധിക്കും പക്ഷേ ഞാൻ പോയിന്റിന്റെ ഒരു ശാഖയെ തിരിച്ചറിയുകയാണ് അതിനാൽ ശരിയാണ് അതിനാൽ മൊമെന്റുകളുടെ രീതിക്ക് നമുക്കുള്ള അതേ ചട്ടക്കൂടാണ് സംഭവിക്കുന്നത് പരിമിതമായ മൂലക രീതി ചോദ്യത്തിനായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഉപയോഗിക്കും അതെ അവർ വേർപിരിയലായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നതുപോലെ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ അത് നല്ലതാണ് അതെ നിങ്ങൾ ചോദിക്കുകയാണ് നോഡ് പോയിന്റുകൾ തമ്മിലുള്ള വേർതിരിവ് എന്തായിരിക്കണം അതെ അതിനാൽ നിങ്ങൾ ഇവിടെ അൽപ്പം ശ്രദ്ധാലുവായിരിക്കണം നിങ്ങൾ സ്ഥിരസ്ഥിതിയായി ഇത് 2 മാത്രം സജ്ജമാക്കുന്നില്ലെന്നും ഈ പദം ഇവിടെ മറക്കരുതെന്നും ഉറപ്പാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അത് ശരിയാണ് കാരണം മൊത്തത്തിൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള നിങ്ങളുടെ സ്കെയിലിംഗ് അർത്ഥമാക്കുന്നത് നിങ്ങൾ ചെയ്യുന്നതെന്തും അത് സ്ഥിരമായ രീതിയിൽ ചെയ്യണം കാരണം നിങ്ങൾ മുമ്പ് ഇന്റഗ്രൽ ഇക്വേഷൻ രീതികളിൽ കണ്ടതുപോലെ ഞാൻ എന്റെ വിവേചനാധികാരം കൂടുതൽ മികച്ചതാക്കുമ്പോൾ എനിക്ക് കൂടുതൽ കൃത്യമായ ഉത്തരങ്ങൾ ലഭിക്കും അതിനാൽ ആ ഡിസ്ക്രിറ്റൈസേഷൻ നോഡുകൾ തമ്മിലുള്ള വ്യത്യാസ ദൂരത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നു അതിനാൽ ഞാൻ ഒരു ഡെറിവേറ്റീവിനെ പരിമിതമായ വ്യത്യാസം ഉപയോഗിച്ച് ഏകദേശം കണക്കാക്കുന്നു അതിനാൽ ഡിനോമിനേറ്റർ പ്രധാനമാണ് അതിനാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കണം ഈ ഘടകം ഇവിടെ ഉൾപ്പെടുത്താത്ത ആളുകൾ വലതുവശത്തുള്ള ന്യൂമറേറ്ററിൽ ഉൾപ്പെടുത്തിയ ഡിനോമിനേറ്ററിൽ ഇത് ഒരു ഡെറിവേറ്റീവിന്റെ പരിമിതമായ വ്യത്യാസത്തിന്റെ ഏകദേശമാണ് ഈ സമവാക്യത്തിന് പിന്നിലെ ആശയം ഫോർവേഡ് വ്യത്യാസം കേന്ദ്ര വ്യത്യാസം പിന്നോട്ട് വ്യത്യസ്തം ഇവയാണ് നിങ്ങൾ പ്രയോഗിച്ച ഒരു ഡെറിവേറ്റീവിനെ ഏകദേശം കണക്കാക്കുന്നതിനുള്ള വഴികൾ നിങ്ങൾക്ക് ഈ പദപ്രയോഗം ശരിയാകും അതെ ഞങ്ങൾ ഇതിലേക്ക് കൂടുതൽ പോകില്ല കാരണം പരിമിതമായ വ്യത്യാസ രീതികൾ പഠിക്കാൻ ഞങ്ങൾക്ക് ഒരു സമർപ്പിത മൊഡ്യൂൾ ഉണ്ടായിരിക്കും അതിനാൽ ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന അതേ ചട്ടക്കൂട് ഇതാണ് കൂടുതൽ FEM വലത്തേക്ക് വരുന്നു എഫ്ഇഎം ചെയ്യുന്നത് ടെസ്റ്റിംഗ് ഫംഗ്ഷനെ അടിസ്ഥാന ഫംഗ്ഷന് തുല്യമായി സജ്ജീകരിക്കുന്നു എന്നതാണ് അതിനാൽ ഇത് തികച്ചും സുവർണ്ണനിയമമല്ല എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് എന്നാൽ FEM ചെയ്യുന്നതിനുള്ള ഏറ്റവും സാധാരണമായ മാർഗ്ഗമാണിത് നിങ്ങൾ ടെസ്റ്റിംഗും അടിസ്ഥാന പ്രവർത്തനങ്ങളും ഒരേപോലെ തിരഞ്ഞെടുക്കുന്നതാണ് കൂടാതെ ഇതിനെ ഞങ്ങൾ നേരത്തെ ഈ വാക്ക് കണ്ടിരുന്നു എന്നും വിളിക്കുന്നു ഗലേർകിന്റെ രീതി ശരിയാണ് അതിനാൽ ഈ സമവാക്യം ഇവിടെ നോക്കുമ്പോൾ മുമ്പത്തെ സ്ലൈഡിൽ നിന്ന് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വീണ്ടും എഴുതാനും കഴിയും അതായത് എനിക്ക് ഈ സമവാക്യം മുഴുവൻ ലളിതമായ ഫോർമാറ്റിൽ മാറ്റിയെഴുതാൻ കഴിയും ഇത് പോലെ അതിനാൽ ചില അർത്ഥത്തിൽ ഈ സമവാക്യം ഉപയോഗിച്ച് ഞാൻ പറയുന്നത് ചില പ്രത്യേക പോയിന്റുകളിൽ ഈ സമവാക്യം നടപ്പിലാക്കുകയാണ് ശരി അതിനാൽ എന്റെ മുഴുവൻ അച്ചുതണ്ടുകളും ഇതുപോലെയുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന സാധാരണ ഗ്രിഡ് പോയിന്റുകളിൽ മാത്രമേ ഞാൻ അത് നടപ്പിലാക്കുകയുള്ളൂ എന്നാൽ ഇവിടെ ഇവിടെ ഇവിടെ അങ്ങനെ വലതുഭാഗത്ത് ഇന്റർമീഡിയറ്റ് പോയിന്റുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ഒന്നും പറയുന്നില്ല അതിനാൽ കുറച്ച് കൂടുതൽ കൃത്യത ലഭിക്കാൻ ലഭ്യമാണോ എന്ന് നിങ്ങൾക്കറിയാം എന്നതാണ് സ്വാഭാവിക ചോദ്യം അതിനാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതേ സമവാക്യമാണ് ഞാൻ എന്തുചെയ്യും ഈ രൂപത്തിൽ വീണ്ടും എഴുതട്ടെ മുമ്പ് ഞങ്ങൾ ഇത് ഒരു ഘട്ടത്തിൽ മാത്രം നടപ്പിലാക്കുകയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് മികച്ച കൃത്യത നേടാനാണ് ഞാൻ ഒരു ഡെൽറ്റ ഫംഗ്ഷൻ അല്ലാതെ മറ്റൊരു ടെസ്റ്റിംഗ് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പോകുന്നു അത് ഞങ്ങൾ ഇവിടെയുള്ള അടിസ്ഥാന പ്രവർത്തനത്തിന് സമാനമാണ് അപ്പോൾ അത് അടിസ്ഥാനപരമായി എന്താണ് അർത്ഥമാക്കുന്നത് ഇതിനർത്ഥം ഒരു ഇന്റഗ്രൽ ഇത് ടെസ്റ്റിംഗ് ശരിയാണ് ഇത് ടെസ്റ്റിംഗ് ഫംഗ്ഷനുള്ള ഒരു അടിസ്ഥാനത്തിലുള്ള സ്റ്റെപ്പ് 2 മുമ്പത്തെ ടെസ്റ്റിംഗിന് സമാനമാണ് ഈ സാഹചര്യത്തിൽ ടെസ്റ്റിംഗ് ഫംഗ്ഷൻ ഒരു അടിസ്ഥാന ഫംഗ്ഷൻ വലത്തിന് തുല്യമാണ് അതിനാൽ ഞാൻ ശരി എഴുതുന്നത് തുടരും നമുക്കുള്ള ഡൊമെയ്ൻ ഏതാണ് ഇത് ഒരു കമ്പ്യൂട്ടേഷണൽ ഡൊമെയ്ൻ ആണെന്ന് പറയാം നമുക്ക് അതിനെ എന്ന് വിളിക്കാം ഇപ്പോൾ FEM ൽ ഉടനീളം പ്രധാന സവിശേഷതകളിൽ ഒന്ന് ഈ അടിസ്ഥാന ഫംഗ്ഷനുകൾ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഫംഗ്ഷനുകൾ ഉപ ഡൊമെയ്ൻ ഫംഗ്ഷനുകളാണ് എന്നതാണ് അതായത് ചില ചെറിയ പ്രദേശങ്ങളിൽ മാത്രം അവ പൂജ്യമല്ല അതിനാൽ ഉപ ഡൊമെയ്ൻ അടിസ്ഥാനവും ടെസ്റ്റിംഗ് ഫംഗ്ഷനുകളും ശരിയാണ് അതിനാൽ തത്വത്തിൽ ഈ അവിഭാജ്യഘടകം മുഴുവൻ കാര്യത്തിനും മേലെയാണ് എന്നാൽ ഇത് പ്രാധാന്യമർഹിക്കുന്നു കാരണം ചില ചെറിയ പ്രദേശങ്ങളിൽ മാത്രം പൂജ്യമല്ല അതിനാൽ കാത്തിരിക്കൂ 0 ആയ പ്രദേശമാണെന്ന് നമുക്ക് പറയാം അതിനാൽ ഇതിനെ പൂജ്യമല്ലാത്ത സോറി ദിസ് സിഗ്മ എം എന്ന് വിളിക്കുന്നു അതിനാൽ ഇതിനെ നമ്മൾ b m ന്റെ പിന്തുണ എന്ന് വിളിക്കുന്നു പിന്തുണ അർത്ഥമാക്കുന്നത് ബഹിരാകാശത്ത് അത് പൂജ്യമല്ലാത്ത സ്ഥലത്തിന് പുറത്ത് 0 ശരിയാണ് അതിനാൽ ത്രികോണങ്ങളായി വിഘടിച്ച ആ വിമാനം ഞങ്ങൾ കണ്ട ആദ്യ ചിത്രത്തിൽ ഓരോ ത്രികോണവും ഈ ഒരു സിഗ്മ എം ഒമേഗ എം പോലെയാണ് അതാണ് ആശയം Student ചെറിയ ചെറിയ കാര്യങ്ങൾ അടങ്ങിയതായിരിക്കും ശരി അതിനാൽ മുമ്പത്തെ രീതി ഈ ഡെൽറ്റ ടെസ്റ്റിംഗ് നടപ്പിലാക്കുന്നു ഇത് കുറച്ച് വ്യതിരിക്തമായ പോയിന്റുകളിൽ ഡിഫറൻഷ്യൽ സമവാക്യം നടപ്പിലാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ആരംഭിച്ചത് ഇനി ഞാൻ എന്താണ് ഈ സമവാക്യത്തിന് നമുക്ക് ഒരു വ്യാഖ്യാനം നൽകാൻ കഴിയുക അതിനാൽ ഇത് ഞാൻ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യമാണ് അതിനാൽ ഇത് പൂജ്യമല്ലെങ്കിൽ എനിക്ക് ഇത് ഒരു ശേഷിപ്പായി കാണാൻ കഴിയും അതിനർത്ഥം ഡിഫറൻഷ്യൽ സമവാക്യം പൂർണ്ണമായി പാലിക്കപ്പെടുന്നില്ല മാത്രമല്ല ഈ മൊത്തത്തിലുള്ള അവിഭാജ്യ ഭാരമായി എനിക്ക് ഇതിനെ കാണാൻ കഴിയും അതിനാൽ ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ ശേഷിപ്പ് ബഹിരാകാശത്തെ എല്ലാ പോയിന്റിലും 0 ആയിരിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല എന്നാൽ ഈ ഡൊമെയ്നിൽ ശരാശരി ഭാരമുള്ള അർത്ഥത്തിൽ ഇത് 0 ശരിയാക്കുക ഓരോ r നും വളരെ ശക്തമായ ഒരു അവസ്ഥയാണെന്ന് പറയുന്നതിൽ നിന്ന് ഇത് വളരെ വ്യത്യസ്തമാണ് അതിനാൽ ഞങ്ങൾ അതിനെ ദുർബലപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾ പറയുന്നു ഇത് ശരാശരി അർത്ഥത്തിൽ പൂജ്യമല്ലാത്ത മൂല്യങ്ങളിലേക്ക് പോകാൻ ഞാൻ നിങ്ങളെയും അനുവദിക്കും ഉദാഹരണത്തിന് 1 എന്നത് ഒരു പൾസ് ഫംഗ്ഷൻ പോലെയാണെങ്കിൽ ഈ സമവാക്യത്തിന്റെ അർത്ഥം 0 ആണെന്നാണ് ഞാൻ പറയുന്നത് ശരാശരി അവശിഷ്ടം 0 ആണെന്നാണ് പക്ഷേ പൊതുവെ ഒരു പൾസ് ഫംഗ്ഷൻ കൂടുതൽ സങ്കീർണ്ണമായ ഒന്നാകണമെന്നില്ല അതിനാൽ ഞാൻ അൽപ്പം വ്യത്യസ്തമായ ഒരു വ്യാഖ്യാനം നൽകുന്നതിന്റെ കാരണം FEM കമ്മ്യൂണിറ്റിയെ നോക്കുന്നു എന്നതാണ് നമ്മൾ ഇതിനകം ഉരുത്തിരിഞ്ഞുവന്ന നിമിഷ സമവാക്യങ്ങളുടെ രീതിക്ക് ഒരു വ്യാഖ്യാനം നൽകുന്നത് പോലെയാണ് ഇത് അതിനാൽ ഇവിടെ നിമിഷങ്ങളുടെ സമവാക്യത്തിന്റെ രീതി ഞങ്ങൾ ഉരുത്തിരിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ തൂക്കമുള്ള അവശിഷ്ട വ്യാഖ്യാനം ഇല്ലായിരുന്നു b അടിസ്ഥാനത്തിലാണ് പ്രൊജക്റ്റ് ചെയ്തതെന്ന് ഞങ്ങൾ പറഞ്ഞു തുടർന്ന് ഞാൻ പരീക്ഷണം നടത്തുന്നു എന്റെ വ്യാഖ്യാനമാണ് ഞങ്ങൾ അതിൽ സന്തുഷ്ടരായിരുന്നു പരിമിതമായ മൂലകങ്ങൾ അവർ അല്പം വ്യത്യസ്തമായ വഴിയിലൂടെ ഒരേ സമവാക്യത്തിൽ എത്തി അവരുടെ വ്യാഖ്യാനം അവശിഷ്ടമായി കണക്കാക്കുന്നു സമവാക്യങ്ങൾ സമാനമാണ് നൽകിയിരിക്കുന്ന വ്യാഖ്യാനം വ്യത്യസ്തമാണ് എന്നാൽ നിങ്ങൾ ഫെമിലെ പേപ്പറുകളും ടെക്സ്റ്റ് ബുക്കുകളും വായിക്കുകയാണെങ്കിൽ അവർ അതിനെ വെയ്റ്റഡ് റെസിഷ്യൽ രീതി എന്ന് വിളിക്കും നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകരുതെന്ന് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അത് അടിസ്ഥാനപരമായി MOM മെത്തേഡ് ഓഫ് മൊമെന്റ്സ് ആണ് ഒരേ കാര്യം പല പേരുകളിലും വ്യത്യസ്ത ഫ്രെയിമുകളിലും വിളിക്കപ്പെടുന്നു ആശയം ഒരേ അടിസ്ഥാന പ്രവർത്തനമാണ് ടെസ്റ്റിംഗ് ഫംഗ്ഷൻ അതാണ് എല്ലാം അതെ ഞങ്ങൾ അത് ഒരു ഭാരിച്ച അർത്ഥത്തിൽ 0 ആക്കി നടപ്പിലാക്കുകയാണ് വിദ്യാർത്ഥി അതിനാൽ നമ്മൾ തകർക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ പുറത്ത് 0 ആയത് കൊണ്ടായിരിക്കും അത് സാരമില്ല നിങ്ങൾക്ക് ഈ ഒമേഗ എന്ന് വിളിക്കാം കുഴപ്പമില്ല അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ phi ഇവിടെ വരുന്നത് അടിസ്ഥാന പ്രവർത്തനത്തിലെ ഈ വികാസത്തിൽ നിന്നാണ് അതിനാൽ ഈ സമവാക്യത്തിൽ എത്ര അജ്ഞാതർ ഉണ്ട് വിദ്യാർഥി എൻ n സമവാക്യങ്ങൾ എത്ര n സമവാക്യങ്ങൾ എത്ര സമവാക്യങ്ങൾ ഇത് എത്ര സമവാക്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നിശ്ചിത തിരഞ്ഞെടുപ്പിനുള്ള ഒരു സമവാക്യം മാത്രമാണ് വിദ്യാർത്ഥി അതെ ഇത് ഒരു സമവാക്യമാണ് അതിനാൽ FEM ന്റെ അടിസ്ഥാന ഫ്രെയിം വർക്ക് നിങ്ങളുടെ മുഴുവൻ ഡൊമെയ്നിനെയും നിങ്ങൾക്ക് അറിയാവുന്ന തരത്തിൽ വിഭജിക്കുക എന്നതാണ് അത്തരമൊരു കൃത്യമായ ഡോട്ട് ഡോട്ട് ഡോട്ട് റൈറ്റ് അതിനാൽ m ന്റെ ആവർത്തനം 1 മുതൽ N വരെ തുല്യമാണ് നിങ്ങൾക്ക് സമവാക്യങ്ങളുടെ ഒരു സിസ്റ്റം ലഭിക്കും നിങ്ങളുടെ x എവിടെയാണ് X ന്റെ കോളം വെക്ടറായിരിക്കും അത് എന്റെ അജ്ഞാതമാണ് ഓരോ ടെസ്റ്റിംഗ് ഫംഗ്ഷനും എനിക്ക് ഒരു സമവാക്യം നൽകുന്നു എനിക്ക് അത്തരം വ്യതിരിക്തമായ പ്രവർത്തനങ്ങളുണ്ട് അതിനാൽ അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന തത്ത്വചിന്ത ഈ അടിസ്ഥാന പ്രവർത്തനങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കാം അതിനാൽ പരിമിതമായ മൂലക രീതിക്ക് ഈ അടിസ്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുടെയും വ്യതിരിക്തതയുടെയും ചില സവിശേഷതകൾ ഉണ്ടായിരിക്കണം അത് ഞങ്ങൾ പിന്നീട് ശരിയാക്കും അതിനാൽ നിങ്ങൾക്ക് ഇവ തിരഞ്ഞെടുക്കാൻ കഴിയില്ലെന്ന് നിങ്ങളോട് പറയാൻ നിങ്ങൾക്ക് ഈ bm കൾ ചില ക്രമരഹിതമായ രീതിയിൽ തിരഞ്ഞെടുക്കാൻ കഴിയില്ല അവയ്ക്ക് ചില നല്ല ഗണിതശാസ്ത്ര ഗുണങ്ങൾ ഉണ്ടായിരിക്കണം ശരി തുടർച്ചയും വ്യത്യസ്തതയും ഈ ഫംഗ്ഷനുകൾക്ക് ഉണ്ടായിരിക്കേണ്ട ജനപ്രിയമായവയാണ് ഇപ്പോൾ ഇത് വരെ ഞാൻ ഇത് എഴുതുന്നത് വളരെ അമൂർത്തമായ ഒരു കാര്യമാണെന്നാണ് നിങ്ങൾക്ക് അറിയാവുന്ന എൽ ഓപ്പറേറ്റർ തരം എന്നാൽ കൂടുതൽ മൂർത്തമായ എന്തെങ്കിലും കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഈ എൽ ഓപ്പറേറ്ററിന്റെ ഒരു ഉദാഹരണം എന്തായിരിക്കാം വളരെ ലളിതമായ ഉദാഹരണം മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ ആദ്യത്തെ രണ്ട് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ നമുക്ക് E H പോലുള്ള ഒരു വേരിയബിളിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം എനിക്ക് H ഇല്ലാതാക്കാം അത് E വലത് പ്രകാരം എഴുതാം അതിനാൽ ഉദാഹരണത്തിന് നിങ്ങളുടേത് എന്തായിരുന്നു എല്ലായ്പ്പോഴും r ന്റെ പ്രവർത്തനം പൊതുവെ ശരിയാണ് ഇപ്പോൾ അടുത്ത സമവാക്യം ഉപയോഗിക്കണമെങ്കിൽ ഞാൻ എന്തുചെയ്യണം ഞാൻ ഇവിടെ ഇടത് വശത്ത് ഒരു ചുരുളൻ എടുത്താൽ എനിക്ക് വലതുവശത്തുള്ള ചുരുളൻ ഉപയോഗിക്കാമോ ഇല്ല കാരണം എനിക്കറിയില്ല ശരിയാണെന്ന് എനിക്കറിയാം അതിനാൽ എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എനിക്ക് കൃത്യമായി കഴിയും ഞാൻ ചെയ്യും ആണോ എന്നത് 0 ആണെന്ന് കരുതുക അത് അത്ര സങ്കീർണ്ണമല്ല അതിനാൽ നമുക്ക് ഇത് എഴുതാം അത് ശരിയായി കൈകാര്യം ചെയ്യുന്നത് എളുപ്പമല്ല അതിനാൽ ഈ മുഴുവൻ കാര്യവും ലളിതമാക്കാം അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇടതുവശത്തുള്ളത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഓപ്പറേറ്റർ എൽ വലതുവശത്താണ് അതിനാൽ ഓപ്പറേറ്റർ എനിക്ക് ഇത് ഇതുപോലെ എഴുതാം അതിനാൽ ഇത് എന്റെ എൽ ഓപ്പറേറ്ററുടെ ഒരു ഉദാഹരണമാണ് ഇ ഓകെയാണ് എനിക്ക് നിലവിലെ ടേം ഉണ്ടെങ്കിൽ അത് എവിടെ പോകും ഈ ജെ പദം പൂജ്യമല്ലാത്തതാണ് അത് എവിടെ പോകുന്നു അത് വലതുവശത്ത് വലതുവശത്ത് എന്റെ എഫ് ആയിരിക്കും കാരണം വൈദ്യുത മണ്ഡലം ഉണ്ടാകില്ല അല്ലെങ്കിൽ അത് വലതുവശത്ത് വരും അതിനാൽ വലതുവശത്ത് പൂജ്യമല്ലാത്തതിന്റെ ഉദാഹരണങ്ങൾ ഞങ്ങൾ കണ്ടു എന്നാൽ ഞങ്ങൾ ഇതിനകം പഠിച്ചതിൽ നിന്ന് ഈ സമവാക്യത്തിൽ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന പ്രധാന വ്യത്യാസം ഓപ്പറേറ്ററിൽ അവിഭാജ്യ സമവാക്യം ഇല്ലാത്തതാണ് പ്രവർത്തനത്തിൽ അവിഭാജ്യമായ ഒരു അടയാളവും ഇല്ല എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് അത് എന്തിന്റെ അർത്ഥമാണ് ഡെറിവേറ്റീവുകൾ ശരിയാണ് അതെ അത് വലതുവശത്ത് 0 എന്ന സ്ഥാനത്ത് വരും സത്യത്തിൽ അതെ നിലവിലുള്ളതാണെങ്കിൽ അത് വലതുവശത്തായിരിക്കും അതിനാൽ ഇത് പരിമിതമായ മൂലക രീതിയുടെ നിങ്ങളുടെ അടിസ്ഥാന സജ്ജീകരണമാണ് ഒന്നാമതായി അടിസ്ഥാന ഫംഗ്ഷനുകൾ ഉപ ഡൊമെയ്നാണ് അത് നിങ്ങളുടെ ഓപ്പറേറ്റർ ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററാണ് അതിനാൽ അതിന്റെ പരിഹാരത്തിൽ ഗ്രീനിന്റെ പ്രവർത്തനങ്ങളൊന്നും ഉൾപ്പെടുന്നില്ല എനിക്ക് അത് ഇന്റഗ്രൽ സമവാക്യം ലഭിച്ച നിമിഷം എനിക്ക് അത് ആവശ്യമാണ് അതായത് ഗ്രീനിന്റെ പ്രവർത്തനം ഒരു പരിഹാരമായി അവിടെ ദൃശ്യമാകും ഇതിൽ നിന്ന് വിരളമായ ഭാഗം വ്യക്തമല്ല പക്ഷേ ഉദാഹരണങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങൾ അതിലേക്ക് വരും അതിനാൽ ഇതാണ് അടിസ്ഥാന ചട്ടക്കൂട് ഞങ്ങൾ മുന്നോട്ട് പോകുകയും പരിമിതമായ മൂലക രീതി പഠിക്കുകയും ചെയ്യും അതിനാൽ തുടർന്നുള്ള മൊഡ്യൂളുകൾ ഇതിനുള്ള ഉദാഹരണങ്ങളും കേസുകളും എന്താണെന്ന് ഞങ്ങൾ നോക്കും എങ്ങനെയാണ് നമ്മൾ സമവാക്യങ്ങളുടെ ഒരു വിരളമായ സിസ്റ്റത്തിൽ എത്തിച്ചേരുന്നത് 1 D 2 D ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ പരിഹരിക്കാം ഇതു വരെ എന്തെങ്കിലും ചോദ്യങ്ങൾ നമ്മൾ കാണുന്ന മിക്കവാറും എല്ലാ പുതിയ രീതികളിലും ഞങ്ങൾ എല്ലായ്പ്പോഴും മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളിൽ നിന്ന് ആരംഭിക്കുകയും ഒന്നുകിൽ ഒരു ഡിഫറൻഷ്യൽ റൂട്ടിലൂടെയോ അവിഭാജ്യ റൂട്ടിലൂടെയോ എടുക്കുകയും പിന്നീട് അവയിൽ നിന്ന് വ്യത്യസ്ത രീതികൾ ഉണ്ടാകുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുക മാക്സ്വെല്ലിന്റെ ചെറിയ വെക്റ്റർ കാൽക്കുലസിന്റെ സമവാക്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ട ആരംഭ പോയിന്റ്